അസൈൻമെന്റ് നമ്പർ 5 ന്റെ പരിഹാരത്തിൽ തുടരുക ഞാൻ ഇപ്പോൾ 6 7 8 പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നു പ്രശ്നo നമ്പർ 6 ൽ L നീളമുള്ള ആരം ആർ എന്നിവയുടെ സിലിണ്ടർ പരിഗണിക്കുക നീളo എൽ ആരം ആർ എന്നിവയുടെ വളരെ നേർത്ത സിലിണ്ടറാണ് നമ്മൾ പരിഗണിക്കുന്നത് ഇത് വളരെ നീളമുള്ളത് എടുക്കുന്നതിന്റെ ഉദ്ദേശ്യം നമുക്ക് ഫ്രിഞ്ച് ഇഫക്റ്റുകൾ അവഗണിക്കാൻ കഴിയും അതിനർത്ഥം അനന്തമായി നീളമുള്ള സിലിണ്ടറായി നമുക്ക് കണക്കാക്കാം ഇതിന് x ദിശയിൽ കാന്തികവൽക്കരണം M ഉണ്ട് അതിനാൽ ഞാൻ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കാന്തികവൽക്കരണം ഇങ്ങനെയാണ് കാണപ്പെടുന്നത് Z ആശ്രയത്വമില്ല നമ്മൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത് H ന്റെ വ്യതിചലനം എന്താണ് B യുടെ വ്യതിചലനം 0 ആണെന്നും ഇത് mu 0 ന് തുല്യമാണെന്നും H പ്ലസ് M ന്റെ വ്യതിചലനമാണെന്നും അതിനാൽ H ന്റെ വ്യതിചലനം മൈനസ് M ന്റെ വ്യതിചലനത്തിന് തുല്യമാണെന്നും എനിക്കറിയാം അതിനാൽ M ന്റെ വ്യതിചലനം കണക്കാക്കിയാൽ എനിക്ക് ഉത്തരം ഉണ്ട് എനിക്ക് ഉടൻ തന്നെ ഉത്തരം എഴുതാൻ കഴിയുമെങ്കിലും ഗോസ്സ് നിയമം ഉപയോഗിച്ച് ഇത് എങ്ങനെ ചിട്ടയായി നേടാമെന്ന് ഞാൻ കാണിച്ചുതരാം B0 0 M ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുകളിൽ നിന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് എല്ലായിടത്തും കാണുന്നത് വ്യതിചലനം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം ഇത് ഉപയോഗിക്കുന്നത് നിർവചനം ആണ് ഇത് ഒരു വോളിയത്തിൽ സംയോജിപ്പിച്ച M ന്റെ വ്യതിചലനം പോകുന്നുവെന്ന് പറയുന്നു ഈ വോളിയത്തിന്റെ ഉപരിതലത്തിൽ ഇന്റഗ്രൽ ഉപരിതലത്തിന് തുല്യമാണ് എനിക്ക് ഇത് കുറച്ച് ആംഗിൾ ഫൈയിൽ കണ്ടെത്തണമെങ്കിൽ വളരെ ചെറിയ നീളo ഡെൽറ്റയും ഏരിയയും ഉള്ള ഒരു ബോക്സ് എടുക്കാം ഇപ്പോൾ ഈ ബോക്സ് ഉള്ളിലുണ്ടോ ബോക്സ് അകത്തുണ്ടെങ്കിൽ ഞാൻ ഇന്റഗ്രൽ M dot d s കണക്കാക്കുന്നു ഈ വീതി മുതൽ ഡെൽറ്റ വളരെ ചെറുതാണ് ഇത് ഉപരിതലത്തെ 0 ഉപരിതലത്തിലേക്ക് സംഭാവന ചെയ്യുന്നു മറുവശത്ത് ഇത് നോക്കൂ M വരുന്നു M പുറത്തു പോകുന്നു അതിനാൽ ഫ്ലക്സ് വരുന്നതെന്തും ഉപേക്ഷിക്കുകയാണ് അതിനാൽ M dot d s 0 ആണ് അതിനാൽ അകത്ത് M ന്റെ വ്യതിചലനം 0 ആണ് ഇത് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാം കാരണം ഇത് ഒരു ഏകീകൃത കാന്തികവൽക്കരണമാണ് M dV M Minside0 മറുവശത്ത് ഞാൻ ഉപരിതലത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ഇതാണ് കാന്തികവൽക്കരണം ഞാൻ ഈ ഉപരിതലത്തിൽ വന്ന് ഇത് അപ്രത്യക്ഷമാകുന്ന ഉയരത്തിന്റെ ഈ പ്രത്യേക ബോക്സ് വീണ്ടും ആക്കുകയാണെങ്കിൽ എന്നാൽ വിസ്തീർണ്ണം a ആന്തരിക ഉപരിതലത്തിൽ n പുറത്തേക്ക് പോകുന്നുവെന്നത് ശ്രദ്ധിക്കുക അതിനാൽ ഇതിൽ നിന്നുള്ള M dot ds ഉപരിതലത്തിലേക്ക് ലംബമായി M ന്റെ ഘടകമാകാൻ പോകുന്നു ഇത് M കോസൈൻ ഫൈ ആണ് ഞാൻ ഇവിടെ നിന്ന് ഒരു ആംഗിൾ ഫൈയിലാണെങ്കിൽ ഉപരിതലത്തിലേക്ക് സാധാരണ വിപരീത ദിശയിലേക്കാണ് പോകുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആകാൻ പോകുന്നു പുറത്തു നിന്ന് സംഭാവനകളൊന്നുമില്ല അതിനാൽ നമ്മൾ കണ്ടെത്തിയത് M dot ds ഇത് വിസ്തീർണ്ണം കൊണ്ട് ഗുണിക്കണം ബോക്സിനുള്ളിലെ ബോക്സിന് 0 ന് തുല്യമാണ് പൂർണ്ണമായും സിലിണ്ടറിനുള്ളിലാണ് കൂടാതെ പ്രദേശത്തിന്റെ മൈനസ് M കോസൈന് ഫൈ യുടെ തുല്യമാണ് അതിന്റെ ഒരു വശം പുറത്തായിരിക്കുമ്പോൾ അതിന്റെ ഒരു വശം അകത്തുണ്ട് തീർച്ചയായും വീതി ബോക്സിന്റെ ഉയരം ഏതാണ്ട് 0 ആണ് ഇത് M ഗുണം വോളിയം ഡിവി യുടെ തുല്യമായിരിക്കും M0 inside അതിനാൽ M ന്റെ വ്യതിചലനം അകത്തെ 0 ന് തുല്യമാണെന്ന് ഇത് ഉടനടി സൂചിപ്പിക്കുന്നു ഇത് ശരിയാണ് ബോക്സ് അകത്തും പുറത്തും ആയിരിക്കുമ്പോൾ M dv യുടെ വ്യതിചലനം എനിക്ക് മൈനസ് M കോസൈൻ ഫൈ നൽകുന്നു ബോക്സിന്റെ വീതി അല്ലെങ്കിൽ ഉയരം പോലും ഏകദേശം 0 അതിനാൽ എവിടെയെങ്കിലും ഒരു ഡെൽറ്റ ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം അതിനാൽ M തവണ dv യുടെ വ്യതിചലനം a ഇരട്ടി ഉയരം ds ആണെന്ന് എനിക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയും നമുക്ക് എഴുതാം തുല്യമാണ് അല്ലെങ്കിൽ മൈനസ് എം കോസൈൻ ഫൈ തവണയും ഉണ്ട് a ഇരുവശത്തുനിന്നും ഡിഎസിൽ നിന്നും റദ്ദാക്കുന്നു അത് ഉപരിതലത്തിലുടനീളം പോകുമ്പോൾ എനിക്ക് 1 നൽകുന്നു അല്ലാത്തപക്ഷം അത് എനിക്ക് 0 നൽകുന്നു അതിനാൽ എനിക്ക് അത് എഴുതാം M ന്റെ വ്യതിചലനം മൈനസ് M കോസൈന് ഫൈ ഡെൽറ്റ S മൈനസ് R തുല്യമായിരിക്കണം കൂടാതെ H ന്റെ വ്യതിചലനം അതിന്റെ നെഗറ്റീവ് ആയതിനാൽ H ന്റെ വ്യതിചലനം മൈനസ് M ന്റെ വ്യതിചലനത്തിന് തുല്യമാണ് അപ്പോൾ M കോസൈന് ഫൈ ഡെൽറ്റ S മൈനസ് R അതാണ് നിങ്ങളുടെ ഉത്തരം അടുത്ത ചോദ്യo നമ്പർ 7 ചോദ്യo നമ്പർ 6 ന്റെ കാന്തിക സിലിണ്ടറിനുള്ളിലെ സഹായ ഫീൽഡ് എച്ച് മാഗ്നറ്റിക് ഫീൽഡ് ബി എന്നിവയാണെന്ന് അതിൽ പറയുന്നു അതിനാൽ വീണ്ടും ഞാൻ സിലിണ്ടറിന്റെ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് കാന്തികവൽക്കരണം x ദിശയിലേക്ക് പോകുന്നു എച്ച് ന്റെ വ്യതിചലനം എം കോസൈൻ ഫൈ ഡെൽറ്റ എസ് മൈനസ് R ന് തുല്യമാണെന്ന് നമ്മൾ ഇതിനകം കണ്ടു H ന്റെ കറന്റ് കർൾ 0 അല്ല അതിനാൽ H ഉപരിതലത്തിൽ സിഗ്മ നട്ട് കോസൈൻ ഫൈ പോലെ വിതരണം ചെയ്യുന്ന ഒരു ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് പോലെയാകും ഇത് ഉടനെ എനിക്ക് തരുന്നു HMcosϕ δs RH0Hinside M2B 0H M 0M2 അതിനാൽ ഈ ചാർജ് ഈ വശത്ത് പോസിറ്റീവ് ആണ് മറുവശത്ത് നെഗറ്റീവ് ആണ് ഇത് എച്ച് എനിക്ക് മൈനസ് എം ഓവർ 2 തുല്യമായിരിക്കണം അല്ലെങ്കിൽ എനിക്ക് വെക്റ്റർ മൈനസ് mu ഓവർ 2 എഴുതാൻ കഴിയും അതിനാൽ H ഇൻസൈഡ് മൈനസ് എം ഓവർ 2 B എന്നിവ mu 0 ന് തുല്യമാണ് H പ്ലസ് M mu 0 M ബൈ 2 ആകും അതിനാൽ H ഇൻസൈഡ് ഇത് H ഉം M ഉം ചുവന്ന മാഗ്നിറ്റ്യൂഡ് M ബൈ 2 mu 0 ആയി കാണിക്കുന്ന അതേ ദിശയിലാണ് M ബൈ 2 അതിനാൽ അത് ചോദ്യം നമ്പർ 7 ആണ് പരിഹരിച്ചത് ഞാൻ നിങ്ങളെ ചിന്തിക്കാൻ അനുവദിക്കും ബന്ധിത പ്രവാഹങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും കാരണം ബന്ധിത വൈദ്യുത പ്രവാഹങ്ങൾ ഓർക്കുക ഈ സാഹചര്യത്തിൽ M ന്റെ കർൾ തുല്യമായ J B ഉം M ക്രോസ് n ആയ K B ഉം ഇവിടെ ഉപരിതല വൈദ്യുതധാരയ്ക്ക് തുല്യമാകാൻ പോകുന്നു M ഈ ദിശയിലാണ് n പുറത്തേക്ക് പോകുന്നു അതിനാൽ എം ക്രോസ് എൻ നീളമുള്ള സിലിണ്ടറാകും ഇത് പരിഹരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും ചിലപ്പോൾ എച്ച് രീതി ഉപയോഗിക്കുന്നതിന്റെ ശക്തിയും നമുക്ക് കാണിക്കാം ചോദ്യo നമ്പർ 8 ഇത് ഒരു തികഞ്ഞ ഡയമാഗ്നറ്റിക് ആയ സൂപ്പർകണ്ടക്ടറായ ഒരു മെറ്റീരിയലിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഒരു സൂപ്പർകണ്ടക്ടർ നിങ്ങൾ എവിടെ പകർന്നാലും അതിനുള്ളിലെ ഫീൽഡ് എല്ലായ്പ്പോഴും 0 ആണ് അതിനാൽ ഞാൻ ഒരു സൂപ്പർകണ്ടക്ടറിന്റെ ഒരു ഗോളമെടുത്ത് പ്രയോഗിച്ച ഒരു ഫീൽഡ് ബിയിൽ പ്രയോഗിച്ചാൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നു എന്താണ് M ഇൻസൈഡ് ഉം എന്താണ് നെറ്റ് എച്ച് ഉം ഇപ്പോൾ എനിക്കറിയാം ബി ഉള്ളിലുള്ളത് 0 ആണെന്നും ഇത് ബി പ്രയോഗിച്ചതിന് തുല്യമായിരിക്കണം പ്രയോഗിച്ച ബി ഏകതാനമായതിനാൽ ബി ഇൻഡ്യൂസ് ആകർഷണവും വിപരീത ദിശയിലുമായിരിക്കണമെന്ന് എനിക്കറിയാം അതിനാൽ നമ്മൾക്ക് ഇപ്പോൾ വേണ്ടത് എനിക്ക് ഒരു എം ഉണ്ടായിരിക്കണം ഇത് എനിക്ക് വിപരീത ദിശയിൽ ഒരു ഇൻഡ്യൂസ്ഡ് ഫീൽഡ് നൽകുന്നു നേരത്തെ ഒരു പ്രഭാഷണത്തിൽ നമ്മൾ ഇതിനകം കണ്ടു ഒരു ഏകീകൃത കാന്തികവൽക്കരണത്തിലൂടെയാണ് ഇത് ചെയ്യുന്നത് Binside0 Bapplied Binduced എനിക്ക് ഒരു ഏകീകൃത മാഗ്നൈസേഷൻ M ഉണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് z ദിശയിൽ പറയാം അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കട്ടെ H ന്റെ വ്യതിചലനം മൈനസ് M ന്റെ വ്യതിചലനത്തിന് തുല്യമാണ് പോസിറ്റീവ് z ദിശയിലേക്ക് പോകുന്നതിന് M എനിക്ക് തരും ഇവിടെ ഒരുതരം പോസിറ്റീവ് മാഗ്നറ്റിക് ചാർജ് നെഗറ്റീവ് മാഗ്നറ്റിക് ചാർജ് ഡെൽ ക്രോസ് എച്ച് 0 എന്നിവയാണ് അതിനാൽ ഇത് ഒരു ധ്രുവീകരണം മൂലമുള്ള വൈദ്യുത മണ്ഡലം പോലെയാണ് ഈ സാഹചര്യത്തിൽ എച്ച് ഇത് മൈനസ് എം ഓവർ 3ആകാൻ പോകുന്നു അതിനാൽ കാന്തികക്ഷേത്രം M മൈനസ് M ബൈ 3 ആയി മാറുന്നു ഇത് 2 M ബൈ 3 ആണ് MH M3B0M M32M30 Bapplied2M300 ⇒ M 32 Bapplied0 അതിനാൽ ഒരു ഗോളാകൃതിയിലുള്ള കാന്തത്തിന്റെ ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചു ഫീൽഡ് ഉള്ളിൽ എന്തായിരിക്കണം അതിന് കാന്തികവൽക്കരണം M ഉണ്ടെങ്കിൽ ഇവിടെ ഉയരവും അതിനാൽ ഇത് എനിക്ക് ഒരു കാന്തികക്ഷേത്രം നൽകുന്നു ഈ ദിശയിൽ പച്ച ഉപയോഗിച്ച് ഞാൻ ഇത് എഴുതാം 32 M കാരണം എനിക്ക് എതിർദിശയിൽ ഒരു കാന്തികക്ഷേത്രം വേണം സൂപ്പർകണ്ടക്ടറിൽ M വിപരീത ദിശയിലായിരിക്കണം ഈ കാന്തികവൽക്കരണം കാരണം ബി പ്രയോഗിച്ചതും ഒപ്പം ഫീൽഡും എഴുതിയതിലൂടെ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും ഇത് 32 M 0 ആയിരിക്കണം 0 B0H MH M32 Bapplied0 H B കാരണം സൂപ്പർകണ്ടക്ടറിനുള്ളിൽ ഫീൽഡ് 0 ആണ് അത് കാന്തികവൽക്കരണം മൈനസ് 3 ബൈ 2 ആണെന്ന് എനിക്ക് ഉടനടി നൽകുന്നു അതിനാൽ എനിക്ക് ഇത് എച്ച് ആയിരിക്കണം അതിനാൽ ഞാൻ ഇവിടെ mu 0 എന്ന് എഴുതിയിരിക്കണം പിങ്ക് നിറത്തിൽ എഴുതാം അവിടെ ഒരു mu 0 ഉം അതിനാൽ ഇത് mu 0 ആയിരിക്കണം അതിനാൽ M തുല്യമാണ് 32 B ഓവർ mu 0 അതാണ് എം നമ്മൾ M കണ്ടെത്തി B 0 ഉം B mu 0 H ഉം M ഉം B ഉം 0 ഉം ആണെന്ന് എനിക്കറിയാം അതിനാൽ H മൈനസ് M ന് തുല്യമാണ് ഇത് 3 3 പകുതിയായി B പ്രയോഗിച്ച ഓവർ mu 0 ഉം 3 ഭാഗങ്ങളായിരിക്കും 1 എച്ച് പ്രയോഗിച്ച ബിയിൽ നിന്നാണ് വരുന്നത് എച്ചിന്റെ പകുതിയാണ് എം ഈ അസൈൻമെന്റ് നമ്പർ 9 10 11 എന്നിവയിലെ ബാക്കി പ്രശ്നങ്ങൾ മിസ് ഹൊറമിറ്റ ദാസ് ഗുപ്തയാണ് ചെയ്യാൻ പോകുന്നത് വിദ്യാർത്ഥികളെ അതിനാൽ ചോദ്യം നമ്പർ 8 ൽ സൂപ്പർകണ്ടക്റ്റിംഗ് ഗോളത്തിനുള്ളിലെ സഹായ ഫീൽഡ് എച്ച് മാഗ്നെറ്റിസഷൻ എം എന്നിവയ്ക്കായി നമ്മൾ പരിഹരിച്ചു അതിനാൽ ഇപ്പോൾ ആ സൂപ്പർകണ്ടക്ടറിനുള്ളിലെ ചി എം എന്ന കാന്തിക സ്വാധീനം മനസ്സിലാക്കാൻ നമ്മൾ താൽപ്പര്യപ്പെടുന്നു അതിനാൽ ഒരു സൂപ്പർകണ്ടക്ടറിനുള്ളിലെ കാന്തികക്ഷേത്രം ബി 0 ആണെന്ന് നമ്മൾക്കറിയാം ഞാൻ ഒരു കാന്തികക്ഷേത്രത്തിൽ ഒരു സൂപ്പർകണ്ടക്റ്റിംഗ് മെറ്റീരിയൽ സ്ഥാപിക്കുകയാണെങ്കിൽ അതിനാൽ കാന്തികക്ഷേത്രരേഖകൾ ഇതുപോലെ പ്രവർത്തിക്കുന്നു അതിനാൽ ഇത് പോലെയാകും ഇത് വൈദ്യുതചാലകത്തിനുള്ളിൽ പ്രവേശിക്കില്ല Binside0B0HM 0HMH As MχMH 01MH0 χM 1 അതിനാൽ ഞാൻ ഒരു സൂപ്പർകണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ഒരു കാന്തികക്ഷേത്രത്തിൽ സ്ഥാപിക്കുകയാണെങ്കിൽ കാന്തികക്ഷേത്രം സൂപ്പർകണ്ടക്ടിംഗ് മെറ്റീരിയലിനുള്ളിൽ പ്രവേശിക്കുകയില്ല ഒപ്പം ബി ഉള്ളിലെ ഫീൽഡ് 0 ഉം ആയിരിക്കും അതിനാൽ എനിക്ക് അറിയാം B 0 mu 0 എച്ച് പ്ലസ് എം mu 0 എച്ച് പ്ലസ് Chi എംഎച്ച് കാരണം എം Chi എം എച്ച് ആണ് അതിനാൽ എനിക്ക് ബി mu നോട്ട് 1 പ്ലസ് Chi എംഎച്ചിന് തുല്യമാണ് ഇത് 0 ന് തുല്യമാണ് അതിനാൽ എനിക്ക് 1 പ്ലസ് Chi എം 0 ന് തുല്യമാണ് അത് എനിക്ക് Chi എമ്മിന്റെ മൂല്യം മൈനസ് 1 ആയി നൽകുന്നു അതിനാൽ ഒരു സൂപ്പർകണ്ടക്ടിംഗ് മെറ്റീരിയലിന്റെ കാന്തിക സ്വാധീനത്തിന്റെ മൂല്യം മൈനസ് 1 ആണ് അതിനാൽ പ്രശ്നo നമ്പർ 10 ൽ നമുക്ക് ഒരു പോയിന്റ് ദ്വിധ്രുവത്തിന്റെ സഹായ ഫീൽഡ് കണ്ടെത്തേണ്ടി വന്നു അത് അനന്തമായ അളവിൽ r ന് 0 ന് തുല്യമല്ല അതിനാൽ ദ്വിധ്രുവം ഉത്ഭവസ്ഥാനത്ത് സ്ഥാപിക്കുകയും അതിന്റെ മൂല്യം കാന്തികമാണ് ദ്വിധ്രുവം mz ന് തുല്യമാണ് ഇതിനായി ഞാൻ ഒരു ചിത്രം വരയ്ക്കാം അതിനാൽ ഇതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഞാൻ എന്റെ കാന്തിക ദ്വിധ്രുവത്തിന്റെ ഉത്ഭവസ്ഥാനത്ത് സ്ഥാപിക്കുന്നു കാന്തിക മൊമെൻറ് m z ആണ് അതിനാൽ ഇത് z അക്ഷത്തിനടുത്താണ് നയിക്കുന്നത് ഇതൊരു പോയിന്റ് ദ്വിധ്രുവമാണ് കൂടാതെ എനിക്ക് ഇവിടെ ഗോളാകൃതി കോർഡിനേറ്റ് സിസ്റ്റം വരയ്ക്കാനും കഴിയും ഇതാണ് എന്റെ തീറ്റ ഇത് എന്റെ phi അതിനാൽ ഇതാണ് r വെക്റ്റർ ഇതാണ് തീറ്റ ഇത് phi അതിനാൽ ഇപ്പോൾ ഞാൻ കാണും r എന്ന സഹായ ഫീൽഡിന് 0 ന് തുല്യമല്ലാത്ത മൂല്യം എന്താണ് അതിനാൽ കാന്തികക്ഷേത്രം കാരണം കാന്തികവൽക്കരണം നടക്കുന്നുവെന്ന് നമുക്കറിയാം അതിനാൽ കാന്തികക്ഷേത്രം ബിക്ക് സ്ഥലത്തെ ആശ്രയിച്ചിരിക്കുന്നുവെങ്കിൽ കാന്തികവൽക്കരണം m ആ ആശ്രയത്തെ അനുകരിക്കും അതിനാൽ ബി യുടെ വ്യതിചലനം 0 ന് തുല്യമാണെന്നും ഈ കാന്തിക ദ്വിധ്രുവം അനന്തമായ പരിധിയാണെന്നും നമുക്കറിയാം അതിനാൽ നമുക്ക് അതിനോട് ചേർന്നിരിക്കുന്ന ഒരു ഉപരിതലമില്ല കാരണം B യുടെ വ്യതിചലനം 0 ന് തുല്യവും M ന്റെ വ്യതിചലനവും B യുടെ വ്യതിചലനത്തിന് ആനുപാതികമാണെന്ന് നമുക്കറിയാം അതിനാൽ M ന്റെ വ്യതിചലനവും 0 ന് തുല്യമാണ് B എന്നത് mu ശൂന്യത്തിന് തുല്യമാണ് എച്ച് പ്ലസ് എം എച്ച് വ്യതിചലനവും 0 ആണെന്ന് ഇത് പിന്തുടരുന്നു M0 ഇപ്പോൾ H ന്റെ കർൾ കണ്ടെത്തുമ്പോൾ പോയിന്റ് ദ്വിധ്രുവം 0 എന്നതിന് തുല്യമായ ഉത്ഭവസ്ഥാനത്ത് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം നമുക്ക് മുമ്പത്തെ പേജിനെ പരാമർശിക്കാം സമയം കാണുക 1603 ഇവിടെ നമ്മൾ ഈ ഡയഗ്രം കാണിച്ചിരിക്കുന്നു കാന്തിക ദ്വിധ്രുവവും ഇത് കാണിച്ചിരിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റവുമാണ് അതിനാൽ ഇപ്പോൾ ഇത് 0 ന് തുല്യമായ r ആയി സ്ഥാപിച്ചിരിക്കുന്നു അതിനാൽ നമ്മൾക്ക് ഒരു ഫ്രീ കറന്റ് ഇല്ല അതിനാൽ 0 ൽ നിന്ന് അകലെ നമ്മൾക്ക് ഒരു ഫ്രീ കറന്റ് ഇല്ല H Jfree0 H0H0 0 ൽ നിന്ന് അകലെ r ൽ നിന്ന് 0 ന് തുല്യമാണ് H ന്റെ അദ്യായം J സ ജന്യത്തിന് തുല്യമാണെന്ന് നമുക്ക് ഓർമിക്കാം അതിനാൽ H ന്റെ ചുരുളൻ J സ്വതന്ത്രമായി 0 ന് തുല്യമാണ് അതിനാൽ അനന്തമായ ഒരു മാധ്യമത്തിൽ നമ്മൾക്ക് ഒരു പോയിന്റ് ദ്വിധ്രുവമുണ്ടായിരുന്നതിന്റെ പരിഹാരം നിങ്ങൾ കണ്ടതും ഈ ദ്വിധ്രുവം ഉൽപാദിപ്പിച്ച കാന്തികക്ഷേത്രം കാരണം എം പ്രേരിതമാണ് ബിക്ക് ആനുപാതികമായിരിക്കും അതിനാൽ r അല്ലെങ്കിൽ സ്പേസ് വേരിയബിളുകളെ അവയുടെ പ്രവർത്തനപരമായ ആശ്രയം തുല്യമായിരുന്നു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം ഇത് അനന്തമായ അളവിലുള്ള മെറ്റീരിയലാണ് Minduced∝ B നമ്മൾ അത് മുറിച്ചുമാറ്റി എന്ന് കരുതുക അതിനാൽ നമ്മൾ ഈ ചോദ്യം ഇതിലേക്ക് മാറ്റുന്നുവെന്ന് കരുതുക നമുക്ക് ഒരു പരിമിത കാന്തിക വസ്തു അല്ലെങ്കിൽ കാന്തിക വസ്തുക്കളുടെ ഒരു ഗോളമുണ്ട് ഒപ്പം ഞാൻ ഒരു പോയിന്റ് ദ്വിധ്രുവം മധ്യഭാഗത്ത് ഇട്ടു ഈ സാഹചര്യത്തിൽ സംഭവിക്കുന്നത് M ഉൽപാദിപ്പിക്കുന്നതെന്തും അതിന് ഉപരിതലത്തിൽ M dot n അല്ലെങ്കിൽ M ക്രോസ് n ഉണ്ടാകും അത് ഒരു അധിക H ന് കാരണമാകുകയും ആശ്രിതത്വം B ന് നേരിട്ട് ആനുപാതികമായിരിക്കില്ല അത് കുറച്ചുകൂടി സങ്കീർണ്ണമാകും ഈ പ്രത്യേക സന്ദർഭത്തിൽ അത് അനന്തമായ ഒരു മാധ്യമത്തിൽ ഇടുകയാണെങ്കിൽ നമ്മൾക്ക് നൽകിയ വാദഗതികൾ സാധുവാണ് പ്രശ്നo നമ്പർ 11 ൽ ഒരു പോയിന്റ് ദ്വിധ്രുവത്തിന്റെ സഹായ ഫീൽഡ് നമ്മൾ കണ്ടെത്തും അതിനാൽ പ്രശ്നം നോക്കുന്നതിന് നമ്മൾക്ക് രണ്ട് വ്യത്യസ്ത വഴികളുണ്ട് ആദ്യം നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് കേസുമായി ഒരു സാമ്യത ഉണ്ടാക്കാൻ കഴിയും പ്രഭാഷണ വീഡിയോകളിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ദ്വിധ്രുവത്തിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എങ്ങനെ കണക്കാക്കി ഇവിടെ ആ ഇലക്ട്രിക് ഫീൽഡും നമ്മളുടെ സഹായ ഫീൽഡും എച്ച് ഉപയോഗിച്ച് നമ്മൾ ഒരു സാമ്യത ഉണ്ടാക്കി കണ്ടെത്തും സഹായ ഫീൽഡിന്റെ മൂല്യം അതിനാൽ ഈ പ്രശ്നം ചെയ്യുന്നതിനുള്ള ആദ്യ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം അതിനാൽ എച്ച് കർൾ ജെ ഫ്രീ ആണെന്ന് നമുക്കറിയാം അത് 0 ആണ് നമ്മൾ ഇത് പ്രശ്ന നമ്പർ 10 ൽ കണ്ടു എച്ച് വ്യതിചലനം പോയിന്റ് ദ്വിധ്രുവത്തിന്റെ ചില കാന്തിക ചാർജായി എഴുതാം ഇ കർൾ 0 ന് തുല്യമാണെന്നും ഇത് ഒരു പോയിന്റ് ദ്വിധ്രുവത്തിന്റെ വൈദ്യുത മണ്ഡലമാണെന്നും ഇയുടെ വ്യതിചലനം എപ്സിലോൺ നോട്ട് റോയ്ക്ക് തുല്യമാണെന്നും ഇവിടെ ഓർമിക്കുക ഇവിടെ റോ ചാർജ് ഡെൻസിറ്റി H Jfree0 HMagnitude change of the point dipole And E0 E0 So H ≡E ഇപ്പോൾ ഇവ രണ്ടും തമ്മിൽ ഒരു സാമ്യത വരയ്ക്കാൻ കഴിയുമെങ്കിൽ പോയിന്റ് ദ്വിധ്രുവത്തിന്റെ സഹായ ഫീൽഡ് ഒരു ഇലക്ട്രിക് ദ്വിധ്രുവത്തിന്റെ വൈദ്യുത മണ്ഡലത്തിന് തുല്യമാണെന്ന് ഞാൻ കാണും അതിനാൽ ഇത് എനിക്ക് ഈ പ്രശ്നം നോക്കാനുള്ള വളരെ ലളിതമായ ഒരു മാർഗ്ഗം നൽകുന്നു ഇത് പരിഹരിക്കുന്നതിനുള്ള വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകേണ്ടതില്ല എനിക്ക് ഒരു സാമ്യത ഉണ്ടാക്കാൻ കഴിയും എച്ച് 1 ഓവർ 4 പൈ ആർ ക്യൂബിന് 3 മീറ്റർ ഡോട്ട് ആർ മൈനസ് m എന്നതിന് തുല്യമാണെന്ന് എനിക്ക് എഴുതാൻ കഴിയും ഇവിടെ m എന്നത് പോയിന്റ് ദ്വിധ്രുവത്തിന്റെ കാന്തിക മൊമെൻറ് ആണ് rr m ഈ പദപ്രയോഗത്തിലേക്ക് എനിക്ക് എങ്ങനെ എത്തിച്ചേരാനാകും കാരണം ഒരു പോയിന്റ് ദ്വിധ്രുവത്തിന് വൈദ്യുത മണ്ഡലം P ബൈ 4 pi എപ്സിലോൺ നോട്ട് ആർ ക്യൂബ് 2 കോസ് തീറ്റ ആർ പ്ലസ് സൈൻ തീറ്റ തീറ്റയാണെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് പ്രഭാഷണ കുറിപ്പുകൾ നോക്കാം നിങ്ങൾക്ക് ഈ പദപ്രയോഗം ലഭിക്കും നിങ്ങൾ ഇത് ഒരു കോർഡിനേറ്റ് ഫ്രീ ഫോമിൽ എഴുതുമ്പോൾ 1 ഓവർ 4 പൈ എപ്സിലോൺ നോട്ട് ആർ ക്യൂബ് 3 പി ഡോട്ട് ആർ ആർ മൈനസ് പി നിങ്ങൾ ഇത് സഹായ ഫീൽഡുമായി ബന്ധപ്പെടുത്തുന്നു നിങ്ങൾക്ക് സഹായ ഫീൽഡിനുള്ള എക്സ്പ്രഷൻ എഴുതാം അതിനാൽ പ്രശ്നം നോക്കാനുള്ള ഒരു മാർഗമാണിത് rr P പ്രശ്നം നോക്കുന്നതിനുള്ള മറ്റൊരു മാർഗം പൂർണ്ണമായും കാന്തികമാണ് അതിനാൽ ഒരു കാന്തിക ദ്വിധ്രുവം വൈദ്യുതധാരയുടെ വൃത്താകൃതിയിലുള്ള ലൂപ്പിനെക്കുറിച്ച് ചിന്തിക്കാം i എന്നും ഈ ലൂപ്പിന്റെ വിസ്തീർണ്ണം a എന്നും പറയുക അതിനാൽ എന്റെ കാന്തിക നിമിഷം m ഈ പോയിന്റ് ദ്വിധ്രുവത്തിന്റെ കാന്തിക നിമിഷത്തിന്റെ വ്യാപ്തി കറന്റ് ഗുണം വിസ്തീർണ്ണമാണ് അതിനാൽ ഇപ്പോൾ എനിക്ക് ദിശയും അറിയണം അതിനാൽ കാന്തികക്ഷേത്രത്തിന്റെ ദിശ ലംബമാണ് കാന്തിക മൊമെൻറ് ദിശ കറന്റ് ലൂപ്പിന്റെ ഉപരിതലത്തിലേക്ക് ലംബമാണ് ഇപ്പോൾ B യുടെ വ്യതിചലനം 0 ന് തുല്യവും M ന്റെ വ്യതിചലനവും 0 ഉം H ന്റെ വ്യതിചലനം 0 ഉം നമ്മുടെ മുമ്പത്തെ പരിഹാരത്തിൽ കണ്ടു B0 B0B0J H ന്റെ വ്യതിചലനം 0 നും H ന്റെ കർൾ ഒരു ദ്വിധ്രുവത്തിന് സമാനമായ J ഫ്രീ തുല്യമാണെന്ന് നമുക്കറിയാം ഇപ്പോൾ സ്വതന്ത്ര സ്ഥലത്ത് ഒരു പോയിന്റ് ദ്വിധ്രുവത്തിന്റെ സ്ഥാനത്ത് B യുടെ വ്യതിചലനം 0 ന് തുല്യമാണെന്നും B യുടെ കർൾ mu 0 J ന് തുല്യമാണെന്നും നമുക്കറിയാം ഇപ്പോൾ ഈ രണ്ട് സമവാക്യങ്ങളും വിവരിക്കുക ഈ ഘടകം ഒഴികെ ഈ രണ്ട് സമവാക്യങ്ങളും സമാനമാണ് അതിനാൽ എനിക്ക് എഴുതാൻ കഴിയും അതിനാൽ B എന്നത് mu 0 ബൈ 4 pi 3 m ഡോട്ട് r r മൈനസ് m ബൈ r ക്യൂബ് എന്നിവയ്ക്ക് തുല്യമാണെന്ന് നമുക്കറിയാം കാരണം ഈ രണ്ട് സമവാക്യങ്ങൾക്കിടയിൽ എനിക്ക് ഒരു സാമ്യത ഉണ്ടാക്കാൻ കഴിയും ഈ mu ശൂന്യമല്ലാതെ എനിക്ക് നേരിട്ട് H എഴുതാൻ കഴിയും അതിനാൽ 1 ബൈ 4 പൈ 3 അതിനുള്ളിൽ ഉള്ളതിനാൽ ഞാൻ എച്ച് എഴുതാം അതിനാൽ 1 ബൈ 4 പൈ 3 m ഡോട്ട് r r മൈനസ് m ബൈ r ക്യൂബ് rr mr3 അതിനാൽ ഒരു പോയിന്റ് ദ്വിധ്രുവത്തിന്റെ സഹായ ഫീൽഡിനായുള്ള എന്റെ അന്തിമ പദപ്രയോഗം 1 ഓവർ 4 പൈ 3 m ഡോട്ട് ആർ ആർ മൈനസ് എം ബൈ ആർ ക്യൂബ് rr mr3 H ന്റെ ഈ മൂല്യം പോയിന്റ് ദ്വിധ്രുവം സ്വതന്ത്ര സ്ഥലത്താണോ അതോ അത് അനന്തമായ കാന്തിക സ്വാധീനമുള്ള Chi M ആണോ എന്നതിൽ നിന്ന് വ്യത്യസ്തമാണെന്നത് ശ്രദ്ധിക്കുക കാരണം സമവാക്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നു സ്വതന്ത്ര സ്ഥലവും ഒരു മാധ്യമവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാന്തികക്ഷേത്രം കണക്കാക്കുമ്പോൾ ആയിരിക്കും അതിനാൽ രണ്ട് സന്ദർഭങ്ങളിലും എച്ച് 1 ഓവർ 4 പൈ 3 m ഡോട്ട് ആർ ആർ മൈനസ് m ഓവർ ആർ ക്യൂബ്ഡ് സമവാക്യങ്ങളുടെ സാമ്യത കാരണം സ്വതന്ത്ര സ്ഥലത്ത് ബി ദ്വിധ്രുവം സ്വതന്ത്ര സ്ഥലത്ത് ആയിരിക്കുമ്പോൾ അത് വെറും mu തവണയല്ല H m 0 അതേസമയം ഒരു മീഡിയത്തിൽ ബി mu 0 H പ്ലസ് m ആയിരിക്കും അതായത് mu 0 ഈ H വരുന്നതും Chi m H ഉം ആയിരിക്കും അത് എച്ച് 0 കണക്കാക്കിയാൽ mu 0 1 പ്ലസ് Chi m ആയിരിക്കും Chi m നെ ആശ്രയിച്ച് ഇത് ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലാണെങ്കിൽ അത് ശൂന്യമായ സ്ഥലത്തേക്കാൾ അല്പം വലുതായിരിക്കും rr mr3 Bfree0HBmedium0H M0HMH 01MH